എല്ലാവർക്കും സുപ്രഭാതം അഡ്വാൻസ് റൈറ്റിംഗ് നൈപുണ്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ പാഠഭാഗത്തിൽ നാം സംസാരിച്ചത് അനുദിനജീവിതത്തിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഫലപ്രദമായി എഴുതുവാൻ ആവശ്യമായ വിവിധ കാര്യങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്തു എഴുതിത്തുടങ്ങുമ്പോൾ അവലംബിക്കാവുന്ന വിവിധതരത്തിലുള്ള പാറ്റേൺ അഥവാ മാതൃകകളെ കുറിച്ചും നാം പ്രതിപാദിച്ചു ശ്രോതാവിൻറെ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിൻറെ പ്രാധാന്യം മനസ്സിലാക്കി അത് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചും നാം മനസ്സിലാക്കി പാറ്റേണുകൾക്ക് പുറമെ ബിസിനസ് രചനയ്ക്ക് സഹായകരമാകുന്ന മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം സുഹൃത്തുക്കളുമായി നിങ്ങൾ ചെയ്യുന്ന എഴുത്ത് നിങ്ങളുടെ വ്യക്തിഗത രചനയുടെ ഭാഗമാണ് പക്ഷേ ബിസിനസ്സ് രചനയുടെ കാര്യത്തിൽ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കേണ്ടിയിന്നു അതിനാൽ നിങ്ങളുടെ ബിസിനസ്സ് രചനയെ മെച്ചപ്പെടുത്തുന്ന വിവിധ തത്ത്വങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങൾ എഴുതുമ്പോൾ വ്യത്യസ്ത പശ്ചാത്തലങ്ങളുള്ള വായനക്കാർക്കു വേണ്ടിയാണ് എഴുതുന്നത് അവർ വ്യത്യസ്ത വിദ്യാഭ്യാസ പശ്ചാത്തലം ഉള്ളവരായിരിക്കും കൂടാതെ വയസ്സ് ലിംഗം അഭിരുചി വിശ്വാസം സംസ്കാരം താല്പര്യം എന്നീ കാര്യങ്ങളിലും നമ്മുടെ വായനക്കാർ വ്യത്യസ്തമായിരിക്കും എന്നിരുന്നാലും എഴുത്ത് എന്നത് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ളതാകയാൽ ആശയവിനിമയത്തിലെ സെൻഡർ ആയ എഴുത്തുകാരനും റിസീവർ ആയ വായനക്കാരനും തമ്മിൽ നല്ല ബന്ധം ആവശ്യമാണ് കൂട്ടുകാരെ ബിസിനസ് റൈറ്റിംഗ് അഥവാ എഴുത്തിന് സഹായകരമായ വളരെ പ്രധാനപ്പെട്ട ചില പദപ്രയോഗങ്ങൾ ഉണ്ട് ഇവയെല്ലാംതന്നെ ഇംഗ്ലീഷ് അക്ഷരമായ 'C' യിൽ ആരംഭിക്കുന്നതിനാൽ 5 Cs എന്ന് അറിയപ്പെടുന്നു ഈ പദപ്രയോഗങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ വരുംദിവസങ്ങളിൽ ശ്രേഷ്ഠമായ രീതിയിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും നിങ്ങളുടെ സ്ഥാപനത്തിൻറെ വളർച്ചയിൽ വലിയൊരു പങ്കു വഹിക്കാൻ കഴിയും ഇനിയും 5 Cs ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ ക്ലാരിറ്റി അഥവാ വ്യക്തതയാണ് നിങ്ങൾ എഴുതുന്നതായ് എല്ലാ കാര്യത്തിലും വ്യക്തത പുലർത്തണം ചിലപ്പോഴൊക്കെ നമ്മുടെ എഴുത്ത് അവ്യക്തമാകാറുണ്ട് അനുദിന ജീവിതത്തിലെ ഗോസിപ്പ് അഥവാ കിംവദന്തികളിലും സാഹിത്യത്തിലും ആംബിഗുറ്റി ഒരു സവിശേഷത ആയിരിക്കാം എന്നാൽ ബിസിനസ് റൈറ്റിംഗ് അഥവാ ജോലിസംബന്ധമായ എഴുത്തുകളിൽ ഇതൊരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് നിങ്ങളുടെ സന്ദേശം അവ്യക്തം ആണെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല മാത്രമല്ല ആളുകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് മനസ്സിലാക്കി എഴുത്തിൽ എപ്പോഴും വ്യക്തത പുലർത്തേണ്ടത് ആവശ്യമാണ് 5Cs കളുടെ ശ്രേണിയിലുള്ള രണ്ടാമത്തെ പദപ്രയോഗമാണ് കേർട്ടസി വിനയം ബഹുമാനം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ വരുന്ന പദമാണിത് നിങ്ങൾ ഒരു വിവരം കൈമാറുമ്പോൾ അത് വളരെ മോശം വിവരം ആണെങ്കിൽ പോലും ബഹുമാനത്തോടുകൂടി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അതിനുശേഷം വരുന്ന പദപ്രയോഗമാണ് കൺസിഡറേഷൻ വായനക്കാരന് ഒരു പരിഗണന നൽകണമെന്നാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എഴുതുമ്പോൾ വായനക്കാർ ആരായിരിക്കും എന്ന് നമുക്ക് അറിയണമെന്നില്ല ചിലപ്പോൾ ഒരു യുവാവോ യുവതിയോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ വ്യക്തിയോ അങ്ങനെ ആരും ആയിരിക്കാം നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരെ ബാധിക്കുന്ന ആയിരിക്കാം അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങടെ എഴുത്തിലൂടെ മറ്റുള്ളവരുടെ വികാരങ്ങൾ വ്രണപ്പെടുവാൻ പാടില്ല ഇതാണ് കൺസിഡറേഷൻ എന്നതിൻറെ ആവശ്യകത അടുത്ത പദമാണ് കൺസൈസ്നെസ്സ് അഥവാ സംക്ഷിപ്തത പറയാനുള്ളത് സംക്ഷിപ്തമായി അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയുന്നതിൻറെ പ്രത്യേകതകളെക്കുറിച്ച് കഴിഞ്ഞ പാഠഭാഗത്തിൽ നാം ചർച്ച ചെയ്തതാണ് കൺസൈസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുങ്ങിയ സന്ദേശങ്ങൾ ആയിരിക്കണം എന്നാണ് എന്നാൽ ചുരുങ്ങിയ സന്ദേശം നൽകണമെന്ന ലക്ഷ്യത്തോടുകൂടി മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള സന്ദേശം ക്രമീകരിക്കുവാൻ പാടില്ല നമ്മുടെ സന്ദേശം വായിക്കുന്ന സമയത്ത് ആരും നിഘണ്ടുവും ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കണം ഒരു കത്ത് സ്വീകരിക്കുമ്പോഴും റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴും അത് സംക്ഷിപ്തമാകണമെന്ന് നാമാഗ്രഹിക്കുന്നു സന്ദേശം സംക്ഷിപ്തമാകണം എന്ന് പറയുമ്പോൾ അത് എത്രയും ആകാമോ അത്രയും ആകാം എന്നാൽ അതിന് പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക കൈമാറുവാനുള്ള നിർദിഷ്ട കാര്യങ്ങൾ മാത്രം പറയുക അതോടൊപ്പം നിങ്ങളുടെ ഉദ്ദേശം വായനക്കാരന് ആ സന്ദേശത്തിലൂടെ മനസ്സിലാകുമോ എന്നും ഉറപ്പുവരുത്തുക അടുത്തതായുള്ളത് കോടിയലിറ്റി എന്ന ആശയമാണ് ഇതു സംബന്ധിച്ച ഉദാഹരണങ്ങൾ നൽകുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ വ്യക്തമാകും ബിസിനസ്സിൽ ആയിരിക്കുമ്പോൾ മനുഷ്യരുമായാണ് ഇടപെടുന്നത് എന്ന സത്യം ഭൂരിഭാഗം ആളുകളും മറന്നുപോകുന്നു ബിസിനസുമായി മാത്രം മുന്നോട്ടു പോകുന്നു എന്നല്ല മറിച്ച് ബിസിനസിലൂടെ ആളുകളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ബിസിനസ് രചനയുടെ ഉദ്ദേശം ആശയങ്ങൾ പ്രകടിപ്പിക്കുക എന്നതാണ് അല്ലാതെ മതിപ്പുളവാക്കുക എന്നതല്ല ചിലപ്പോൾ ഭംഗിയായി വസ്ത്രം ധരിക്കുന്നവർ നിങ്ങളെ ആകർഷിച്ചു എന്ന് വരാം എന്നാൽ മറ്റു ചില ആളുകൾ ഭംഗിയായി വസ്ത്രം ധരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ ആകർഷിക്കും അവിടെ ചിലപ്പോൾ ആ വ്യക്തിയുടെ സംസാരശൈലി ആയിരിക്കാം നിങ്ങളെ ആകർഷിച്ചത് നിങ്ങൾ ബിസിനസിൽ ഇടപെടുമ്പോൾ നിങ്ങളുടെ പ്രധാന ഉദ്ദേശം എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെ പ്രകടമാക്കുക എന്നതാണ് ഒരു ബോസ് എന്ന നിലയിൽ നിങ്ങൾക്ക് നിർദേശങ്ങൾ നൽകേണ്ടതിനാൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വ്യക്തമാക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വ്യക്തത ഇല്ലായെങ്കിൽ അതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുക അസാധ്യമാണ് നിങ്ങൾ എന്തെങ്കിലും ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുന്നതിനായി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നത് വായനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഓർക്കുക മതിപ്പുള്ള വാക്ക് എന്നതല്ല മറിച്ച് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അതേസമയം നമുക്ക് എങ്ങനെ മതിപ്പുളവാക്കം അല്ലെങ്കിൽ വായനക്കാരെ എങ്ങനെ സ്വാധീനിക്കാം ആയതിനാൽ നമ്മുടെ ആവശ്യകത മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് അതേസമയം മതിപ്പുളവാക്കുക എന്നുപറയുമ്പോൾ നിങ്ങളുടെ ലാളിത്യത്തിലൂടെ നിങ്ങൾക്ക് മതിപ്പുളവാക്കുവാൻ സാധിക്കും നിങ്ങളുടെ സന്ദേശത്തിലെ വ്യക്തതയിലൂടെ മതിപ്പുളവാക്കുവാൻ സാധിക്കും വളരെ ലളിതമായ ഒരു പുഷ്പം നമ്മെ ആകർഷിക്കുന്നത് പോലെയാണ് അധികം വാക്കുകളില്ലാത്ത സന്ദേശം അതുപോലെ തന്നെ സന്ദേശം കൈമാറുമ്പോൾ അതിൻറെ ഉള്ളടക്കത്തിന് വ്യക്തത ഉണ്ടാകണം ഒരു നല്ല രചന ഏറെ പ്രധാനപ്പെട്ടതാണ് അത് വ്യക്തവും ലളിതവും ആയിരിക്കണം ലളിതം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സന്ദേശം തയ്യാറാകുമ്പോൾ വിവിധ തരത്തിലുള്ള വാക്കുകൾ നിങ്ങളിലൂടെ കടന്നുവരാം ചിലപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള പദപ്രയോഗങ്ങൾ അതിൽ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകാതെ അത് ലളിതമായിരിക്കണം അവിദഗ്ദ്ധരായ എഴുത്തുകാർ വളരെയധികം എക്സ്പോഷർ ഇല്ലാത്തവർ അനുഭവപരിചയമില്ലാത്തവർ എന്നീ ആളുകൾ പലപ്പോഴും വ്യക്തതയില്ലാത്ത സന്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കണ്ടുവരുന്നു ആകയാൽ ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തതിനാലാണ് അവിദഗ്ദ്ധരായ എഴുത്തുകാർ അവ്യക്തമായ സന്ദേശം തയ്യാറാക്കുന്നത് സന്ദേശം അയക്കുന്ന വ്യക്തി സന്ദേശത്തിൻറെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിനിടയിൽ ചില വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അദ്ദേഹത്തിന് ആ വാക്കിൻറെ അർത്ഥത്തെക്കുറിച്ച് വ്യക്തമല്ല അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ആ വാക്ക് ഉചിതമല്ല എന്ന കാരണത്താൽ ആയിരിക്കാം അത് ഉപയോഗിക്കാത്തത് ഉദാഹരണത്തിന് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട പ്രതികൂല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജീവനക്കാരെ വേണ്ടത്ര ബോധവാന്മാരാക്കിയിട്ടില്ല Employees have not been made sufficiently aware of the potentially adverse consequences involved regarding these chemicals ഈ വാചകം പരിശോധിക്കുമ്പോൾ സന്ദേശം ദൈർഘ്യമുള്ളതാണ് എന്ന് മാത്രമല്ല വായനക്കാരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഒരു നിഘണ്ടു ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വാചകത്തിൻറെ അർത്ഥം വ്യക്തമാകും എന്നാൽ അതിനുള്ള സാവകാശം ജോലിക്കാരായ വായനക്കാർക്ക് ലഭിക്കുകയില്ല ആതിനാൽ അവ്യക്തമായ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമയത്തിനും ഇർജ്ജത്തിനും മനസ്സിലാക്കലിനും ഒരു തടസ്സമാണ് ഈ രാസവസ്തുക്കളെക്കുറിച്ച് നിങ്ങളുടെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് മുകളിൽ പറഞ്ഞ വാചകത്തെ വ്യക്തതയോടുകൂടി മാറ്റി എഴുതാവുന്നതാണ് ആ സന്ദേശത്തിൻറെ സാരം മുകളിൽ പറഞ്ഞതാണ് ഈ രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട പ്രതികൂല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജീവനക്കാരെ വേണ്ടത്ര ബോധവാന്മാരാക്കിയിട്ടില്ല Employees have not been made sufficiently aware of the potentially adverse consequences involved regarding these chemicals എന്ന വാചകം ഉപയോഗിച്ചാൽ ജീവനക്കാരെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവനക്കാർക്ക് ഈ രാസവസ്തുക്കളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുക എന്ന് വളരെ വ്യക്തമായി ഈ സന്ദേശം എഴുതാവുന്നതാണ് സുഹൃത്തുക്കളെ സന്ദേശത്തിലെ വ്യക്തിയെക്കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാകണം അതോടൊപ്പം അവ്യക്തമായ പദപ്രയോഗങ്ങൾ സന്ദേശത്തിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം നിങ്ങൾക്ക് കാലക്രമേണ അനുഭവസമ്പത്ത് ഉണ്ടാകും നിങ്ങളുടെ അനുഭവസമ്പത്തിൻറെ അടിസ്ഥാനത്തിൽ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതാവും ഉത്തമം എന്ന് മനസ്സിലാകും ഒരു വാചകത്തെ സ്ഥാനത്ത് മറ്റൊരു വാചകം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപരിചിതമായ വാക്കുകൾക്കു പകരം വളരെ സുപരിചിതമായ വാക്കുകൾ ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ വായനക്കാർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ സന്ദേശത്തിന് വ്യക്തത ലഭിക്കുവാനായി അത് ചെറുതാകണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നിങ്ങൾ സന്ദേശം വളരെ ചെറുതാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം സന്ദേശം ഒരുപാട് ചെറുതാക്കുവാൻ ശ്രമിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളവാക്കുന്നതിലും നല്ലത് അധികം വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ആകയാൽ വാക്കുകൾ ആവശ്യത്തിനുമാത്രം ഉപയോഗിക്കുക എന്നതാണ് എൻറെ നിർദ്ദേശം ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരം ആവശ്യകത മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഇനിയും ആവശ്യകത മനസ്സിലാക്കിയാലും വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സന്ദേശത്തിലൂടെ വായനക്കാരുടെ ചിന്തകളെ ചിലർ തടയുന്നു നിങ്ങൾക്ക് ഒരുപാട് കത്തുകൾ ഈമെയിലുകൾ അസൈൻമെൻറുകൾ എന്നിവ ലഭിച്ചേക്കാം എന്നാൽ നിങ്ങൾ ഇത് പരിശോധിക്കുമ്പോൾ അളവിൽ സമൃദ്ധമാണ് എങ്കിലും ഗുണനിലവാരം ഉണ്ടായിരിക്കുകയില്ല ആകയാൽ സന്ദേശം അർത്ഥപൂർണമാകുന്നതിലൂടെ അതിൻറെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അതോടൊപ്പം അർത്ഥപൂർണ്ണം ആക്കുന്നതിനായി ടി എസ് എലിയട്ട് T Eliot നൽകിയ നിർദ്ദേശം സ്വീകരിക്കുക എലിയറ്റ് ഇപ്രകാരം പറഞ്ഞു " വലിയ വാക്കുകൾ ഉപയോഗിക്കരുത് അത് വായനക്കാർക്ക് അധികമായിരിക്കും" അതായത് വായനക്കാർക്കുവേണ്ടി എഴുതുമ്പോൾ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെതന്നെ വെരി എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരമായി ഇൻഫിനിറ്റിലി എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആളുകൾ വെരി എന്ന അർത്ഥം വരുന്നതിനായി ഇൻഫിനിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു വെരി എന്ന വാക്കിലൂടെ അർത്ഥം കൈമാറാൻ സാധിക്കുമ്പോൾ എന്തിനാണ് ഇൻഫിനിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എലിയറ്റ് പറഞ്ഞതനുസരിച്ച് അല്ലാത്തപക്ഷം ഇൻഫിനിറ്റ് അഥവാ യഥാർത്ഥത്തിൽ അനന്തമായ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു വാക്കുകൾ ഉപയോഗിക്കുവാനായി അവശേഷിക്കുകയില്ല സുഹൃത്തുക്കളെ വാക്കുകൾക്ക് പ്രാധാന്യമേറുന്നത് അതിൻറെ സന്ദർഭത്തിനനുസരിച്ചാണ് വാക്കുകൾക്ക് പര്യായപദങ്ങൾ ഉണ്ടാകാം എന്നാൽ അത് പര്യായപദങ്ങൾ മാത്രമാണ് അല്ലാതെ ആ വാക്കിനെ മാറ്റുവാനാകുന്നതല്ല മുൻപ് പറഞ്ഞതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉചിതമായത് ഉപയോഗിക്കുക അല്ലാതെ ആളുകളെ ആകർഷിക്കുവാനായി വലിയ വാക്കുകൾ ഉപയോഗിക്കുകയോ അതിലൂടെ വായനക്കാരുടെ മനസ്സിനെ തളർത്തുകയോ ചെയ്യരുത് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ആവശ്യമാണ് ചെറുതായി ഇരിക്കേണ്ട ഒരു വാചകം ഒരുപാട് ദൈർഘ്യം ഉള്ളതായി മാറി എന്നു തോന്നിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകാം ഒരു ഉപഭോക്താവ് എഴുതിയ കത്തിനെ ഭാഗമായ ഈ വാചകം ഉദാഹരണമായി കണക്കാക്കാം ഒരു റീട്ടെയിൽ ഡീലർ ഹോൾസെയിൽ ഡീലർ എഴുതിയ കത്തിൻറെ ഭാഗമാണെന്ന് സങ്കല്പിച്ചാൽ താഴെപ്പറയുന്ന ഭംഗിയായി മനസ്സിലാക്കം വി ഗരൂ ഹോട്ട് ആൻഡ് കോൾഡ് വെൻ ദി കസ്റ്റമേഴ്സ് കംപ്ലെയിൻറ് എബൌട്ട് ദി മാൽഫംഗ്ഷൻനിംങ് ഓഫ് ഹൈ പ്രൈസ്ഡ് എസീസ് സപ്ലൈഡ് ബൈ യുവർ ഫേം We grew hot and cold when the customer's complaint about the malfunctioning of the high priced ACs supplied by your firm ഈ വാചകം പരിശോധിക്കുക ഇവിടെ വി ഗരൂ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന പ്രയോഗം കോപം ഉണ്ടാക്കി എന്ന് കാണിക്കുവാനായി ആലങ്കാരികമായി ഉപയോഗിച്ചിരുന്നതാണ് മാത്രമല്ല ഇത്രയും വലിയൊരു പ്രയോഗം അവിടെ നടത്തേണ്ട ആവശ്യമില്ല സന്ദേശം എഴുതുന്ന വ്യക്തി എന്ന നിലയിൽ കത്തിന് മറുപടി ലഭിക്കേണ്ടതിനാൽ നിങ്ങൾക്ക് ആശയവിനിമയം നടത്തുവാനുള്ള കാര്യത്തെ സംബന്ധിച്ച അർത്ഥം മനസ്സിലാക്കി വ്യക്തമായി എഴുതുക ഇവിടെ നൽകിയ ഉദാഹരണത്തിന് വിഭിന്നമായി വ്യത്യസ്തമായ രീതിയിൽ വ്യക്തമായി എഴുതുവാൻ ശ്രമിക്കണം എങ്ങനെ എഴുതണം എന്ന് ഇവിടെ നൽകുന്ന നിർദ്ദേശം മനസ്സിലാക്കുക ഏസികളെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതികൾ ലഭിച്ചു നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും ദയവായി കാത്തിരിക്കുക എന്ന് വളച്ചുകെട്ടില്ലാതെ പറയുന്നു എന്ന് വിചാരിക്കുക അതേ കാര്യം തന്നെ വ്യത്യസ്തമായ ശൈലിയിൽ പറയുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആശയം ഉപഭോക്താക്കളിൽ നിന്ന് പരാതികൾ ലഭിച്ചു അതോടൊപ്പം പരാതിയെ സംബന്ധിച്ചുള്ള തുടർനടപടികൾ സ്വീകരിക്കുക എന്നതാണ് എന്തുകൊണ്ട് വളരെ വിനയത്തോടു കൂടി നമുക്ക് ഇപ്രകാരം പറഞ്ഞു കൂടാ "ഞങ്ങൾ നൽകിയ എസികളെക്കുറിച്ച് നിരവധി പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചു എന്തുചെയ്യാനാകുമെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു" ഇത് ഒരു സമീപനം മാത്രമല്ല മറിച്ച് യു അപ്രോച്ച് വായനക്കാരെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ഈ സാഹചര്യത്തെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ സഹായിക്കും ചിലപ്പോഴൊക്കെ നാം ചില സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും ഉദ്ദേശിച്ചിരിക്കുന്നത് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ദേഷ്യം തോന്നും ഇപ്രകാരം ഉണ്ടാവുന്ന ദേഷ്യം നാം എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പരാതി പരിഹരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നാം ഇപ്രകാരം ചെയ്യുന്നത് അതോടൊപ്പം മികച്ച ഒരു മറുപടി ലഭിക്കണമെന്നും നാമാഗ്രഹിക്കുന്നു താഴെ പറഞ്ഞിരിക്കുന്ന പോലെ ആണ് നിങ്ങൾ പറയുന്നത് എന്നു വിചാരിക്കുക 'ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കുപ്രസിദ്ധരായ നിങ്ങളുടെ വിതരണക്കാരിൽ ഒരാളിൽ നിന്ന് അമിത വിലയ്ക്ക് വാങ്ങിയ എസികളിൽ നിന്ന് എൻറെ പണം വീണ്ടെടുക്കാൻ ഞാൻ എന്തുചെയ്യണമെന്ന് നിങ്ങൾ എന്നെ അറിയിക്കുമോ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങുന്നതിനായി ചെലവഴിച്ച തുക എനിക്ക് മടക്കിനൽകണം ഇത് വായനക്കാരൻറെ ദേഷ്യത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഉടലെടുക്കുന്ന വാക്കുകളാണ് എന്നാൽ കുറേക്കൂടി വിനയത്തോടു കൂടി അയാൾ നിങ്ങളിൽ നിന്നും ബ്രാൻഡഡ് എസി ഞാൻ വാങ്ങി അതിൻറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എന്തുചെയ്യണമെന്ന് ദയവായി അറിയിച്ചാലും ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വിനയപൂർവ്വമാണ് എന്ന് മാത്രമല്ല വായനക്കാരുടെ കാഴ്ചപ്പാടിനെ മാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്കായുള്ള എൻറെ ഉപദേശം ഇപ്രകാരമാണ് നിങ്ങളെന്ത് എഴുതുവാൻ തുടങ്ങിയാലും വായനക്കാരൻ നിങ്ങൾ തന്നെയാണെന്ന് ചിന്തിക്കുക വായനക്കാരുടെ സ്ഥാനത്ത് നിങ്ങൾ ആണെന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി എഴുതി അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും വളരെ വ്യക്തതയോടെ കൂടി എഴുതുന്നതിനായി ചില കാര്യങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ് അതിൽ ആദ്യത്തെ വാക്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ചിലപ്പോൾ നാലു വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുനടത്ത് ഒരെണ്ണം മതിയാകും അല്ലെങ്കിൽ മൂന്ന് വാക്കുകൾക്ക് പകരം ഒരു വാക്കിൻറെ ആവശ്യകതയെ ഉണ്ടാകൂ ഒരു വലിയ വാചകം ഉപയോഗിക്കുന്നതിനുപകരം നിങ്ങൾക്ക് ഒരു ഒരു വാക്കിലൂടെ ശരിയായ ആശയം കൈമാറാം ഒരു വലിയ ഉപവാക്യത്തിനുപകരം നിങ്ങൾക്ക് ഒരു ചെറിയ വാക്യം പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാം എപ്രകാരമാണ് ഇത് സാധ്യമാകുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് വളരെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ നിങ്ങൾക്കായി നൽകാനാകൂ നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവരായതിനാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് കൂടാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുവാൻ പ്രാപ്തരായിത്തീരും എ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിൽ ഒരു വ്യക്തി മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാൽ അതിനു പകരമായി മെനി എന്ന പദം ഉപയോഗിക്കുന്നതിലൂടെ അത് ഒറ്റ വാക്ക് ആയി മാറുന്നു ആയതിനാൽ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നതിനുപകരമായി ഒറ്റ വാക്ക് മാത്രം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആവശ്യം നിറവേറ്റാം ചിലപ്പോൾ ആളുകൾ അറ്റ് യുവർ പോസിബിൾ കൺവീനിയൻസ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നതിലൂടെ നാല് വാക്കുകൾ എഴുതേണ്ടി വരുന്നു ഒരു പ്രത്യേക കാര്യം ഏറ്റവും വേഗത്തിൽ ചെയ്യണമെന്നാണ് ആ പ്രയോഗത്തിൻറെ അർത്ഥം അതുകൊണ്ടുതന്നെ അറ്റ് യുവർ പോസിബിൾ കൺവീനിയൻസ് അതിന് പകരമായി സൂൺ എന്ന വാക്ക് മാത്രം ഉപയോഗിക്കാം അതുകൊണ്ടുതന്നെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ സഹായകരം അല്ലാത്ത വാക്കുകൾ ഒഴിവാക്കി സന്ദേശം സംക്ഷിപ്തമാക്കുക മറ്റു ചില സാഹചര്യങ്ങളിൽ ഫുള്ളസ്റ്റ് പോസിബിൾ എക്സ്റ്റൻറ് എന്ന പ്രയോഗം ആളുകൾ ഉപയോഗിച്ച് കാണാറുണ്ട് ഫുള്ളി അല്ലെങ്കിൽ പൂർണമായത് എന്നാണ് ഇതിൻറെ അർത്ഥം അതുകൊണ്ടുതന്നെ ആ പ്രയോഗത്തിന് പകരമായി ഫുള്ളി എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് ഉചിതം മാത്രമല്ല ഇറ്റ് വുഡ് ബി അൺ റീസണബിൾ ടു അസ്യൂം എന്ന പ്രയോഗം വ്യക്തികൾ ഉപയോഗിക്കുന്നത് പകരമായി അസ്യൂമിങ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും നിഷ്പക്ഷത പുലർത്തുവാനാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ള പദപ്രയോഗം ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിലും ഐ അസ്യൂം എന്ന പ്രയോഗം ഉചിതമാണ് വായനക്കാരുടെ കാഴ്ചപ്പാടിൽനിന്ന് ഈ കാര്യങ്ങളെ വീക്ഷിക്കാത്തതാണ് ഇത്തരം ബുദ്ധിമുട്ടുള്ള പ്രയോഗം ഉപയോഗിക്കുന്നതിൻറെ കാരണം വായനക്കാരുടെ പക്ഷത്തുനിന്ന് നാം ചിന്തിച്ചാൽ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് സൂക്ഷ്മമായി എഴുതുവാനാകും തീർച്ചയായും പരിശ്രമംത്തോടുകൂടി നമുക്ക് മികച്ച രീതിയിൽ മുന്നേറുവാൻ സാധിക്കും എഴുത്തിന് പരിശീലനം അത്യാവശ്യമാണ് ആരോ പറഞ്ഞതുപോലെ പരിശീലനം മനുഷ്യനെ പൂർണതയുള്ള വ്യക്തിയായിതീർക്കും നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും അവിടെ അധികമായി എഴുത്തു സംബന്ധമായ ജോലികൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ ആകേണ്ട കാര്യമില്ല മറിച്ച് പരിശീലനത്തിലൂടെയും മറ്റും നിങ്ങൾ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു എഴുത്തിൽ ബഹുമാനം അല്ലെങ്കിൽ മര്യാദ പുലർത്തുക എന്ന ഗുണം പലരും നിരാകരിക്കുന്നതായി കാണാം നമ്മുടെ ലോകത്തിലും സമൂഹത്തിലും വളരെയധികം മര്യാദയുള്ള ബഹുമാനം പുലർത്തുന്ന വ്യക്തികളുണ്ട് ഒരു ശ്രോതാവ് അല്ലെങ്കിൽ വായനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്കായി എഴുതപ്പെടുന്ന സന്ദേശങ്ങളിൽ ആളുകൾ മര്യാദ പുലർത്തണം അഥവാ ഒരുതരം ബഹുമാനം നിലനിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സന്ദേശങ്ങൾ ചില അവസരങ്ങളിൽ ആളുകളെ സ്പർശിക്കാറുണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് സന്ദേശം എഴുതുമ്പോൾ ആ സന്ദേശം വായിക്കേണ്ട വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടുതന്നെ നിങ്ങളുടെ വാക്കുകളിൽ വളരെ മര്യാദ പുലർത്തുന്നത് ആവശ്യമാണ് എല്ലാ ബിസിനസുകളുടെയും അടിസ്ഥാനം നല്ല ബന്ധങ്ങളാണ് ബന്ധങ്ങൾ വളർത്തുവാൻ സഹായിക്കുന്നത് മര്യാദ ബഹുമാനം എന്നിവ പുലർത്തുന്ന ആശയവിനിമയങ്ങളിലൂടെയാണ് മര്യാദയും ബഹുമാനവും എല്ലാം ഉൾപ്പെടുത്തി എങ്ങനെയാണ് വിനയപൂർവ്വം പെരുമാറുവാൻ സാധിക്കുന്നത് അതിനായി നൈപുണ്യവും ബുദ്ധിശക്തിയും അത്യന്താപേക്ഷിതമാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻറെ ഡയറക്ടറിനെ കാണുവാനായി വളരെ തിടുക്കത്തിൽ അവിടെ എത്തി എന്ന് വിചാരിക്കുക റിസപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഇപ്രകാരമാണ് നിങ്ങൾക്ക് ഡയറക്ടർ എന്നെ കാണുവാൻ സാധ്യമല്ല അദ്ദേഹം സ്ഥലത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എന്നാൽ ഈ മറുപടി വിനയത്തോടു കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ആശയവിനിമയം ഫലപ്രദമായിരുന്നു ഡയറക്ടറിനെ കാണുവാനുള്ള താങ്കളുടെ താൽപ്പര്യത്തിന് നന്ദി എന്നാൽ അദ്ദേഹം ഇന്ന് സ്ഥലത്തില്ല അദ്ദേഹം തിരിച്ചു വന്നാലുടൻ താങ്കളെ അറിയിക്കാവുന്നതാണ് ഇപ്രകാരം മുകളിൽ പറഞ്ഞ മറുപടിയെ പുനർ ക്രമീകരിച്ചാൽ അത് വിനയപൂർവ്വമായ ആശയവിനിമയമായി തീരും അതുകൊണ്ടുതന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കണം ഡയറക്ടറിനെ കാണുവാൻ സാധ്യമല്ല എന്ന് ആദ്യം പറഞ്ഞ വാക്കുകൾ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ വിനയം ഉണ്ടായിരുന്നില്ല മറ്റൊരു ഉദാഹരണമാണ് 'നിങ്ങൾ 125 ഗീസറുകൾ അദ്യോഗിക നിരക്കിൽ അയയ്ക്കുമോ' ഇത് വളരെ ഡയറക്ട് അല്ലെങ്കിൽ നേരിട്ടുള്ള ചോദ്യമാണ് എന്നാൽ ഒരു ബിസിനസ് ഇടപാടിന് ഇത് അനുയോജ്യമല്ല ഈ ആവശ്യം വ്യത്യസ്തമായ രീതിയിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഞങ്ങൾക്ക് 125 ഗീസറുകൾ ആവശ്യമാണ് ഇവ ഞങ്ങൾക്ക് അദ്യോഗിക നിരക്കിൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും പറയാം 125 ഗീസറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനാൽ അതിൻറെ നിരക്കിനെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്രകാരം വിനയത്തോടു കൂടി സംസാരിക്കുന്നത് നമുക്ക് എപ്പോഴും നേട്ടമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവച്ചു എന്നുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മീറ്റിങ്ങിന് പോവുകയും അവിടെ എത്തിയതിനുശേഷം മീറ്റിംഗ് മാറ്റിവെച്ചതായുള്ള സന്ദേശം കാണുകയും ചെയ്തു എന്നാൽ ഈ സന്ദേശം വ്യത്യസ്തമായ രീതിയിൽ പറയാവുന്നതാണ് ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങളാൽ യോഗം മാറ്റിവച്ചതിനാൽ ആളുകൾക്ക് ഉണ്ടായ അസൌകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു ആദ്യം പറഞ്ഞ പ്രയോഗത്തെകാളും തികച്ചും വ്യത്യസ്തവും സ്വീകാര്യവുമായ സമീപനമാണ് ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത് 'ഓൺലൈൻ ടാക്സ് നടപടിക്രമം എളുപ്പമാക്കുന്നതിനായി പാൻ മാത്രം മതിയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം' ചിലപ്പോൾ ഇപ്രകാരമൊരു വിവരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നിങ്ങളുടെ പാൻ നമ്പർ കൈമാറുന്നത് അഭിനന്ദനാർഹം ആയിരിക്കും അത് നിങ്ങളുടെ ടാക്സ് നടപടിക്രമം എളുപ്പമാക്കും എന്ന പ്രയോഗമാണ് ഉചിതം വാചകം അവ്യക്തമാണെന്ന് തോന്നിയാൽ അതിനെ രണ്ടായി വിഭജിച്ച് രണ്ട് ചെറിയ വാചകങ്ങൾ ആക്കാം കൂടാതെ ലളിതം വിനയപൂർവ്വം ആയ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം അത് വായനക്കാരെ സ്പർശിക്കുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഇരിക്കേണ്ടതിനായി ആശയവിനിമയത്തിൽ എപ്പോഴും മര്യാദ പുലർത്തുക നിങ്ങൾ ഒരു പോസ്റ്റിനായി അപേക്ഷിക്കുകയും ചില മറുപടികൾ ലഭിക്കുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളിൽ എഴുതേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ എഴുതുമ്പോൾ കൺസിഡറേഷൻ പുലർത്തേണ്ടത് അഥവാ വായനക്കാരെ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന വാക്കുകളിലൂടെയും വാചകത്തിൻറെ ക്രമീകരണത്തിലൂടെയും ഇത് സാധ്യമാണ് ഉദാഹരണത്തിനായി നിങ്ങളൊരു പ്രോജക്ടിനായി അപേക്ഷിച്ചു എന്ന് വിചാരിക്കുക എന്നാൽ 'ഈ വർഷം കൂടുതൽ ഫണ്ടുകൾ ഇല്ലാത്തതിനാൽ നിങ്ങളുടെ പ്രോജക്റ്റ് മടക്കിനൽകുന്നു അടുത്ത വർഷം അയയ്ക്കുക' എന്ന് മറുപടി ലഭിച്ചു പ്രോജക്റ്റ് സ്വീകരിച്ചില്ല എന്ന സന്ദേശം വളരെ വ്യക്തമാണ് എന്നാൽ പ്രോജക്ട് സമർപ്പിച്ചവരെ ഇത്തരം മറുപടികൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടുതന്നെ ഈ സന്ദേശത്തെ ഇപ്രകാരം മികച്ച രീതിയിൽ പുനക്രമീകരിക്കാം 'ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചതിന് നന്ദി ഈ വർഷം ഞങ്ങൾക്ക് ഫണ്ടുകളുടെ അഭാവമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഖേദിക്കുന്നു എന്നിരുന്നാലും ഞങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഉടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഒരു പരിധിവരെ ആളുകൾക്ക് നിരാശ നൽകരുത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് കൂടുതലൊന്നും നൽകുവാൻ നമുക്ക് സാധിക്കാത്തതിനാൽ അല്പം പ്രതീക്ഷ എങ്കിലും നൽകണം അപ്രകാരമാണ് നെഗറ്റീവ് സന്ദേശങ്ങൾ കൈമാറുമ്പോൾ നാം സംസാരിക്കേണ്ടത് ആദ്യവും അവസാനവുമുള്ള വാചകങ്ങളെ പോസിറ്റീവായി ക്രമീകരിച്ചുകൊണ്ട് സന്ദേശത്തിൻറെ മധ്യഭാഗത്ത് നെഗറ്റീവ് സന്ദേശം ഉൾപ്പെടുത്തേണ്ടതാണ് അതിൻറെ ഒരു ഉദാഹരണമാണ് ഫണ്ടുകൾ ഇല്ല എന്ന് പറയുന്ന കാര്യം സന്ദേശത്തിൻറെ ഇടയിലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലൂടെ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇരിക്കുന്നു ഇത്തരത്തിൽ വായനക്കാരുടെ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത രീതിയിൽ സന്ദേശം ക്രമീകരിക്കണം കൺസിഡറേഷൻ ഇല്ലാത്ത സന്ദേശത്തിൻറെ ഒരുദാഹരണമാണ് അടുത്തത് 'കഴിഞ്ഞ മാസം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ഡിവിഡി പ്ലെയറുകളിൽ ഉണ്ടായ വിള്ളലുകൾളിൽ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് ദയവായി വിശദീകരിക്കുക' ഇവിടെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വികാരം അഥവാ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ ഇത് അല്പം വിനയത്തോടുകൂടി സംസാരിക്കാമായിരുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഡിവിഡി പ്ലെയറുകൾ വാങ്ങിയിരുന്നു അതിൽ ചില വിള്ളലുകൾ രൂപപ്പെട്ടു ഇതിൻറെ പരിഹാരമാർഗ്ഗം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വാചകത്തിൽ രണ്ടു വിഭാഗങ്ങൾ ഉണ്ട് എന്നത് കൂടാതെ വായനക്കാരെ പരിഗണിക്കുന്ന സമീപനം പുലർത്തുന്നു ഒരു പരാതിയോ അതിനു സമാനമായ ബിസിനസ് ഇടപാടിൽ വായനക്കാരെ പരിഗണിക്കുന്ന സമീപനം പുലർത്തി എങ്കിൽ മാത്രമേ ആ ഇടപാടുകൾ സുഗമമായി തീരുകയുള്ളൂ സന്ദേശം സംക്ഷിപ്തമാണെന്ന് എഴുത്തുകാർ ഉറപ്പുവരുത്തണം സംക്ഷിപ്തത ഉറപ്പുവരുത്തുവാൻ നാം എന്തു ചെയ്യണം മോശം പദപ്രയോഗങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഒരു മാർഗം എഴുത്തിൻറെ ഏറ്റവും അവസാനത്തെ ജോലിയായ റിവിഷൻ തെറ്റുകൾ കണ്ടെത്തി തിരുത്തുവാനായുള്ള തുടർ വായനകൾ നടത്തുന്നതിലൂടെ അനാവശ്യമായ പദപ്രയോഗങ്ങളും ഉപവാക്യങ്ങളുമെല്ലാം കണ്ടെത്തി നീക്കം ചെയ്യുവാൻ സാധിക്കും ഇതിലൂടെ നമ്മുടെ സന്ദേശം സംക്ഷിപ്തമാകും ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയെക്കാം ഇവ സന്ദേശത്തിൻറെ അർത്ഥം കൈമാറുന്നതിൽ പങ്കുവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് ഒരു തടസ്സമായി നിൽക്കുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ അനാവശ്യ ആവർത്തനങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ പദപ്രയോഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു കൂട്ടുകാരെ ചെറുപ്പംമുതലേ നിങ്ങളുടെ ടീച്ചർമാർ നിന്നോട് പറഞ്ഞതായ 'വിവേകത്തിന്റെ ആത്മാവാണ് സംക്ഷിപ്തത' എന്ന വാക്യം ഓർക്കുക എന്നാൽ എങ്ങനെ സംക്ഷിപ്തമായിരിക്കണം നിങ്ങളുടെ എഴുത്തിൽ സംക്ഷിപ്ത കാത്തുസൂക്ഷിക്കുവാനായി അമിതമായ നാമ പ്രയോഗങ്ങൾ അമിത ആഡംബര പദങ്ങൾ ദൈർഘ്യമേറിയ പ്രയോഗങ്ങൾ എന്നിവ ഒഴിവാക്കണം ഒരുദാഹരണം നമുക്ക് പരിശോധിക്കാം ദെയർ ആർ ത്രീ തിങ്ങ്സ് ഐ വാണ്ട് യൂ ടു ഡു There are three things I want you to do നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഇത് വളരെ ലളിതമായ വാചകമാണ് എല്ലാ വാക്കുകളും അർത്ഥം കൈമാറുന്ന കാര്യത്തിൽ വ്യക്തത പുലർത്തുന്നു എങ്കിലും ഈ വാചകം വീണ്ടും ചെറുതാക്കാം എന്നതാണ് ഐ വാണ്ട് യൂ ടു ഡു ത്രീ തിങ്ങ്സ് ഇവിടെ ദെയർ ആർ എന്നുള്ള ഇംഗ്ലീഷ് പദപ്രയോഗം ഒഴിവാക്കിയിരിക്കുന്നു നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മലയാള പരിഭാഷയിൽ ഇവരണ്ടും ഒന്നാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ വാചകം ചെറുതായിരിക്കുന്നു ഇത്തരം ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ തികച്ചും ഒരു ഭാരമാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ പദപ്രയോഗങ്ങൾ വാചകത്തിൻറെ അർഥവ്യാപ്തിയെ ചെറുതാകുന്നു ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഗുണനിലവാര നിയന്ത്രണ വിഭാഗത്തിലെ അനുചിതമായ പരിശോധനാ നടപടിക്രമം ഞങ്ങളുടെ ഉപഭോക്താക്കളിൽ നിന്ന് പരാതികളുടെ ഒരു കടൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ സമയം നഷ്ടപ്പെടാതെ അന്വേഷണം ആവശ്യമാണ് ഈ വാചകം വളരെ മനോഹരമായി കാണപ്പെട്ടാലും വായനക്കാരെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടുള്ളവാക്കുന്നതാണ് മുകളിൽ പറഞ്ഞ വാചകത്തെ ഇപ്രകാരം ലളിതമായി പറയാം ഗുണനിലവാര നിയന്ത്രണ വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരാതികൾ ലഭിച്ചു അന്വേഷണം ആവശ്യമാണ് പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ആണെന്ന് മാത്രം വായനക്കാരുടെ കാഴ്ചപ്പാടിൽ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നാം മനസ്സിലാക്കണം വായനക്കാരുടെ സ്ഥാനത്ത് നിങ്ങൾ ആണെന്ന് സങ്കൽപ്പിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും ഇവിടെ ഒരു വാചകം പരിശോധിക്കാം നിങ്ങൾക്ക് സമയപരിധി ലഭിച്ചതിനാൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളല്ല ഔദ്യോഗിക നിർദ്ദേശങ്ങൾ നിങ്ങൾ അവഗണിക്കരുത് കൂടാതെ റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കുകയും വേണം ഈ വാചകത്തിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എല്ലാവരും ഔദ്യോഗിക സമയം പിന്തുടരുക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയം വെള്ളിയാഴ്ചയാണ് മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിലൂടെ കൺസേൺ കോർട്ടസി കൺസിഡറേഷൻ എന്നിവ കാത്തുസൂക്ഷിക്കുക എന്നാൽ ഇതിനായി സംക്ഷിപ്തത നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക ഈ വക കാര്യങ്ങളെല്ലാം പ്രയോഗിച്ചാലും കോടിയാലിറ്റി അഥവാ സൌഹാർദ്ദം നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തുക ആശയവിനിമയം എഴുത്തോ സംസാരമോ അങ്ങനെ എന്തായാലും അത് സൌഹാർദ്ദത്തിൻറെയും സഹകരണത്തിൻറെയും മിശ്രിതമാണ് എഴുത്തിലൂടെയുള്ള ആശയവിനിമയത്തിൽ സ്വീകർത്താവിൻറെ നേരിട്ടുള്ള സാന്നിധ്യം ഇല്ലാത്തതിനാൽ അത് വെല്ലുവിളി നിറഞ്ഞതാണ് നിങ്ങളുടെ സന്ദേശങ്ങൾ നെഗറ്റീവ് രീതിയിൽ അല്ലെങ്കിൽ കുറവുള്ളതായി കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക വായനക്കാരോട് താൽപര്യമില്ല എന്ന് കാണിക്കുന്ന സമീപനം ഒഴിവാക്കുക അല്ലാത്തപക്ഷം അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും ഒരു ഓർഗനൈസേഷനും ഉപഭോക്താവും തമ്മിലുള്ള മോശമായ ഇടപാട് ഓർഗനൈസേഷന് വളരെയധികം നഷ്ടമുണ്ടാക്കും അതിനാൽ ഭാഷ ഭംഗിയായി ഉപയോഗിക്കണം അതുകൊണ്ടുതന്നെ ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് സൌഹാർദപരമായതെന്ന് ഉറപ്പുവരുത്തുക മറ്റുചില ഉദാഹരണങ്ങൾ കൂടി പരിശോധിക്കാം ഈ സ്ഥാപനത്തിൻറെ പുരോഗതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ പരാജയപ്പെട്ടു ഈ വാചകത്തെ കുറച്ചുകൂടി സംക്ഷിപ്തമായ രീതിയിൽ മെച്ചപ്പെടുത്താം ഞങ്ങളുടെ സ്ഥാപനത്തിൻറെ പുരോഗതിയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കയുണ്ട് എന്നു ചുരുക്കി പറയാനാകും മറ്റൊരു വാചകം ഇപ്രകാരമാണ് നിങ്ങൾ ഒരു അംഗമല്ലാത്തതിനാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല ഈ വാചകം മറ്റുള്ളവരെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് ഈ വാചകത്തെ 'ഇത് അംഗങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് അംഗത്വം ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു' എന്ന് വളരെ ഡയറക്ടായി മാറ്റി എഴുതാവുന്നതാണ് അതോടൊപ്പം ആ സന്ദേശം ഇങ്ങനെയും പറയാം ഇത് അംഗങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളായി ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അംഗങ്ങൾ അല്ല എന്നു പറയുന്നതിലും സൌഹാർദ്ദപരമായ വാചകമാണ് പിന്നീട് പറഞ്ഞത് നെഗറ്റീവ് പദപ്രയോഗങ്ങൾ സന്ദേശത്തിൻറെ ആദ്യ വാചകങ്ങളിൽ ഉപയോഗിക്കുവാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ അതിൻറെ പ്രതികരണം വന്നപ്പോൾ ചില ആശയങ്ങളെക്കുറിച്ച് നിശബ്ദമായതിനാൽ അത് തൃപ്തികരമല്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയതിനാൽ വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന മറുപടിയാണ് ഉചിതം പ്രിയമുള്ളവരെ ലോകം വളരെ കഠിനമാണ് എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് ആർദ്രത പുലർത്തുകയും ആശയവിനിമയത്തിൻറെ മാർഗങ്ങളായ എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുകയും വേണം നമ്മളെല്ലാവരും മനുഷ്യരായതിനാൽ മറുവശത്ത് ഇരിക്കുന്ന നമ്മുടെ സന്ദേശങ്ങൾ വായിക്കുന്ന മറ്റൊരാളുടെ വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാഹചര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത് എപ്പോഴാണെന്ന് അറിയാത്തതിനാൽ ശുഭാപ്തിവിശ്വാസം പുലർത്തുന്നത് ഒരു ആവശ്യകതയാണ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വായനക്കാരനെ ഭാഗത്തും എഴുത്തുകാരൻ മറ്റൊരാളും ആയിരിക്കും അപ്പോൾ വളരെ കഠിന ഭാഷ ഉപയോഗിച്ച് നിങ്ങൾ എഴുതിയപ്പോൾ വായനക്കാരന് ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും ആകയാൽ മനുഷ്യരെ വേദനിപ്പിക്കാതെ ആശയവിനിമയം നടത്താം ഓസ്കാർ വൈയിൽഡ് പറഞ്ഞതുപോലെ "നിങ്ങൾ നല്ലവരാണെന്ന് നടിക്കുകയാണെങ്കിൽ ലോകം നിങ്ങളെ വളരെ ഗൌരവമായി കാണുന്നു" ഇതിനു സമാനമായി നമ്മുടെ കഴിവിൻറെ പരമാവധി എല്ലാവർക്കും ശുഭാപ്തിവിശ്വാസം നൽകുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ നമ്മോട് നന്നായി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് ഓസ്കാർ വൈൽഡ് കൂട്ടിച്ചേർക്കുന്നു "നിങ്ങൾ മോശമാണെന്ന് നടിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുന്നില്ല ശുഭാപ്തിവിശ്വാസത്തിന്റെ വിസ്മയകരമായ വിഡിത്തം ഇതാണ്" ബിസിനസ് ഇടപാടുകളിൽ നമ്മുടെ പ്രതീക്ഷ ബന്ധങ്ങൾ എന്നിവ നിലനിർത്തുവാൻ ശ്രമിക്കുക ജലാശയവും കാറ്റും അവിടെയുണ്ട് ജലാശയങ്ങൾ പ്രക്ഷുബ്ധമായിരിക്കാം എങ്കിലും നാവീകന് അറിയാം എങ്ങനെ മുൻപോട്ടു പോകണമെന്ന് ഇതുപോലെ എഴുത്തുകാർക്ക് എങ്ങനെ സ്വയം മെച്ചപ്പെടുത്താമെന്നും ആശയവിനിമയം നടത്തുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എപ്രകാരം എഴുതണമെന്നും നമ്മുടെ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും അതിന് ശരിയായ പരിശ്രമം ആവശ്യമാണ് ഏവർക്കും നന്ദി